ഈ ആഴ്ച നമ്മൾ DC DC കൺവെർട്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒറ്റപ്പെടാത്ത കൺവെർട്ടറുകളിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ പ്രത്യേക ആഴ്ചകളിലെ പ്രഭാഷണങ്ങളിലെ പ്രാഥമിക ലക്ഷ്യമായ ബക്ക് കൺവെർട്ടർ ബൂസ്റ്റ് കൺവെർട്ടർ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കാം അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രയോഗിക്കുന്നു അനുകരിക്കുന്നു തുടർന്ന് അവ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും നമുക്ക് കാണാം നിങ്ങൾക്ക് ഒരു ഡിസി വോൾട്ടേജ് ഉണ്ട് ഡിസി ആവശ്യപ്പെടുന്ന ഒരു ലോഡിലേക്ക് നിങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ പക്കലുള്ള ഡിസി വോൾട്ടേജ് ബാറ്ററി അല്ലെങ്കിൽ ലോഡിനാൽ നേരിട്ട് ഉപയോഗിക്കാനാകാത്ത മൂല്യമുള്ള റക്റ്റിഫയർ ഫിൽട്ടറിൽ നിന്ന് വരുന്ന ഡിസി വോൾട്ടേജ് തുടങ്ങി നിരവധി സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ലോഡിന് ഉയർന്ന വോൾട്ടുകൾ ആവശ്യപ്പെട്ടേക്കാം അനലോഗ് സർക്യൂട്ടുകൾക്ക് പ്ലസ് മൈനസ് 15 വോൾട്ട് ആവശ്യപ്പെട്ടേക്കാം മിക്ക ഡിജിറ്റൽ സർക്യൂട്ടുകൾക്കും 3 3 വോൾട്ട് അല്ലെങ്കിൽ 1 8 വോൾട്ട് ആവശ്യപ്പെട്ടേക്കാം അതിനാൽ ഒരു ഘട്ടത്തിലെ ഡിസിയെ മറ്റൊരു ഘട്ടത്തിലെ ഡിസിയിലേക്ക് ശരിയായി പരിവർത്തനം ചെയ്യുന്ന ഈ ജോലി നിർവഹിക്കുന്ന പവർ സപ്ലൈ പോലെയുള്ള ഒരു പവർ ഇന്റർഫേസ് അല്ലെങ്കിൽ പവർ സപ്ലൈ നിർമ്മിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ലീനിയർ റെഗുലേറ്റർ വഴിയാണ് ഏറ്റവും ജനപ്രിയമായ ലീനിയർ റെഗുലേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വിച്ച് മോഡ് വരുന്നത് വരെ പവർ കൺവെർട്ടറുകൾ ഒന്നര പതിറ്റാണ്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നു ലീനിയർ റെഗുലേറ്ററുകൾ വളരെ കൃത്യവും വളരെ നല്ല നിയന്ത്രണവുമാണ് എന്നിരുന്നാലും അവ കാര്യക്ഷമമല്ല സ്വിച്ച് മോഡ് റെഗുലേറ്ററുകൾ തീർച്ചയായും കൂടുതൽ കാര്യക്ഷമമാണ് മോശമായ ഘടകങ്ങളൊന്നുമില്ല ഒരു അനുയോജ്യമായ അർത്ഥത്തിൽ സ്വിച്ച് മോഡ് DC DC കൺവെർട്ടറിനുള്ളിൽ മോശമായ ഘടകങ്ങൾ ഇല്ല എന്നിരുന്നാലും സ്വിച്ച് മോഡ് DC DC കൺവെർട്ടറുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന DC ഔട്ട്പുട്ടിന്റെ ഗുണനിലവാരം ഒരു ലീനിയർ റെഗുലേറ്റർ പോലെ മികച്ചതല്ല എന്നിരുന്നാലും DC DC കൺവെർട്ടറുകൾ സ്വിച്ച് മോഡ് വളരെ ജനപ്രിയമായിത്തീർന്നു അവ വർഷങ്ങളായി ഗുണനിലവാരത്തിലും പ്രകടനത്തിലും മെച്ചപ്പെട്ടു ഇന്ന് അവ ഏറ്റവും ജനപ്രിയമാണ് കൂടാതെ DC DC കൺവെർട്ടറുകളിലെ മിക്ക പവർ സപ്ലൈകളിലും അവ ഉപയോഗിക്കുന്നു മോണിറ്ററുകളിലും പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമുള്ള നമ്മുടെ PCകളിൽ പോലും മുൻഭാഗം DC DC കൺവെർട്ടർ ആയിരിക്കും അതിനാൽ ഈ ഒറ്റപ്പെടാത്തതും ഒറ്റപ്പെട്ടതുമായ കൺവെർട്ടറുകൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഉൾക്കാഴ്ച നേടാനാകുമെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും കൂടാതെ ഇന്നത്തെ മിക്ക ഉൽപ്പന്നങ്ങളിലേക്കും കടന്നുപോകുന്ന യഥാർത്ഥ DC DC പവർ കൺവെർട്ടറുകൾ മനസ്സിലാക്കുന്നതിലേക്ക് പോകും DC DC കൺവെർട്ടറിന്റെ അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇതിൽ ഒരു ഇൻപുട്ട് സോഴ്സ് അടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു ബാറ്ററിയോ റക്റ്റിഫയർ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടോ ആകാം ഇപ്പോൾ അതിൽ ഒരു DC വോൾട്ടേജ് പ്രതീക്ഷിക്കുന്ന ഒരു ലോഡ് അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇവ രണ്ടും ഇന്റർഫേസ് ചെയ്യേണ്ടതുണ്ട് ഇന്റർഫേസിന്റെ ഏറ്റവും ലളിതവും എളുപ്പവുമായ മാർഗ്ഗം അതിനിടയിൽ ഒരു റെസിസ്റ്റർ ഇടുക എന്നതാണ് ഇത് ഏറ്റവും ലളിതമായ DC DC കൺവെർട്ടർ ആയിരിക്കും ഇപ്പോൾ നമുക്ക് വയറിംഗ് കണക്ഷൻ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം ലഭിക്കും ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഉണ്ടാക്കിയ ശേഷം നമുക്ക് സീരീസ് റെസിസ്റ്ററും ലോഡ് റെസിസ്റ്ററും സോഴ്സ് ചെയ്യണം നമുക്ക് ചില പേരുകൾ നൽകാം ഇതിനെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കും ഇതിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കും ഇതിനെ ലോഡ് റെസിസ്റ്റർ എന്ന് വിളിക്കും അതിനിടയിലുള്ളതിനെ സീരീസ് റെസിസ്റ്റൻസ് എന്നും വിളിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രോപ്പ് ആയി പ്രവർത്തിക്കുന്നത് ഇതാണ് ഇനി നമുക്ക് ഉദാഹരണമായി പറയാം നമുക്ക് ഇൻപുട്ടിൽ 48 വോൾട്ട് ഉണ്ട് ഇവിടെ ഔട്ട്പുട്ടിൽ 5 വോൾട്ട് ആവശ്യമാണ് ശേഷിക്കുന്ന 43 വോൾട്ട് ഈ റെസിസ്റ്ററിലുടനീളം ഡ്രോപ്പ് ചെയ്യണം ഇതൊരു സീരീസ് ഡ്രോപ്പ് റെസിസ്റ്ററായിരിക്കും ഇത് മിക്കവാറും എല്ലാ ലീനിയർ റെഗുലേറ്ററുകളിലും ഉപയോഗിക്കുന്ന സാധാരണ ആശയങ്ങളാണ് ഇപ്പോൾ ഈ റെസിസ്റ്റർ വ്യത്യസ്തമായ ഒരു റെസിസ്റ്ററാകാം അതുവഴി നിങ്ങൾക്ക് നിയന്ത്രണം നേടാനാകും അതിനാൽ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസപ്പെടുന്നതിനാൽ ഔട്ട്പുട്ട് 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സജ്ജീകരിക്കുന്ന ഏത് വോൾട്ടേജിലും ഒരു നിയന്ത്രിത ലെവലായി ഈ റെസിസ്റ്റർ മാറ്റുക നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ലളിതമായ DC DC കൺവെർട്ടറിന്റെ പ്രശ്നം Rs ഒരു റെസിസ്റ്റീവ് ആണ് ഈ സർക്യൂട്ടിലൂടെ ഒരു കറന്റ് ഒഴുകുന്നു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ഒരു കറന്റ് i ഉണ്ട് എന്നതാണ് അപ്പോൾ Rs ൽ കുറുകെ ഡിസ്സിപ്പേഷൻ ഉണ്ടാകുന്നു അതായത് I2Rs ഇപ്പോൾ ഇവ പരിമിതമായ പ്രതിരോധമാണ് അതിനാൽ പവർ ഡിസ്സിപ്പേഷൻ പരിമിതമാണ് ഇത് ഒരു വലിയ പവർ ഡിസ്സിപ്പേഷൻ ആകാം അതിനാൽ ഇത്തരത്തിലുള്ള റെഗുലേറ്ററുകൾ വളരെ വിഘടിപ്പിക്കുന്നതും വളരെ കാര്യക്ഷമമല്ലാത്തതുമാണ് ഇപ്പോൾ സീരീസ് എലമെന്റിലെ ഡ്രോപ്പ് 0 ആണെന്ന് കാണുക എന്നതാണ് നമ്മുടെ താൽപ്പര്യം നിങ്ങൾ അത് എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾക്ക് രണ്ട് തരത്തിൽ I2Rs0 ആക്കാം ഒന്ന് Rs 0 വേറൊന്ന് I 0 ആക്കാം ഇപ്പോൾ I 0 അതായത് Rs അനന്തമായ മൂല്യമാകാം അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് സ്വിച്ച് ഒരു ഷോർട്ട് സർക്യൂട്ടായിരിക്കുമ്പോൾ സ്വിച്ചിലുടനീളം വോൾട്ടേജ് 0 ആയിരിക്കുമ്പോൾ പവർ ഡിസ്സിപ്പേഷൻ ഉണ്ടാകില്ല എന്നാണ് ഇതിനർത്ഥം I 0 ആകുമ്പോൾ സ്വിച്ച് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ നിങ്ങൾ സ്വിച്ച് ഓപ്പൺ സർക്യൂട്ട് ആക്കുമ്പോൾ അതിലൂടെയുള്ള കറന്റ് 0 ആണ് തുടർന്ന് സ്വിച്ചിലെ പവർ ഡിസ്സിപ്പേഷൻ 0 ആണ് അതിനാൽ സ്വിച്ച് പവർ ഡിസ്സിപ്പേറ്റ് ചെയ്യാത്ത രണ്ട് അവസ്ഥകൾ മാത്രമാണ് Rs 0 ആയിരിക്കുമ്പോഴും Rs ഇൻഫിനിറ്റി ആയിരിക്കുമ്പോഴും ആണ് സ്വിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ സ്വിച്ച് തുറക്കുമ്പോൾ പൂർണ്ണമായും ഓണാണ് പവർ ഡിസ്സിപ്പേഷൻ സീരീസ് എലമെന്റിലെ സീരീസ് സർക്യൂട്ടിലെ പവർ ഡിസ്സിപ്പേഷന്റെ വീക്ഷണകോണിൽ നിന്ന് അനുവദനീയമായ രണ്ട് വ്യവസ്ഥകൾ ഇവയാണ് ഇത് നേടുന്നതിന് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഒറ്റ പോൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്ററിനെ മാറ്റിസ്ഥാപിക്കാം അതിനാൽ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ Vin ഔട്ട്പുട്ടിലേക്ക് വരുന്നു സ്വിച്ച് ഓഫ് ഉം Vo 0 യും ആണ് ഈ രീതിയിൽ ചാലക സമയത്ത് ഓണായിരിക്കുമ്പോഴും ഓഫായിരിക്കുമ്പോഴും സ്വിച്ചിൽ ഡിസ്പേഷൻ ഉണ്ടാകില്ല ഓപ്പൺ സർക്യൂട്ട് സാഹചര്യമായിരിക്കും എന്നിരുന്നാലും ഇപ്പോൾ Vo എന്ന വോൾട്ടേജ് നിങ്ങളുടെ DC ആയി തുടരില്ല അത് സ്പന്ദിക്കുന്നു സ്വിച്ച് ഓണായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു DC വോൾട്ടേജ് അല്ലെങ്കിൽ Vin ദൃശ്യമാകും സ്വിച്ച് തുറക്കുമ്പോൾ Vo യിലുടനീളമുള്ള വോൾട്ടേജ് 0 ആണ് അതിനാൽ അത് ഉയർന്ന താഴ്ന്ന ഉയർന്ന താഴ്ന്ന സ്പന്ദിക്കുന്ന വോൾട്ടേജിലേക്ക് പോകുന്നു ഇത് ഒരു ചോപ്പറായി മാറുന്നു അതിനാൽ ഇതിനെ ഒരു ചോപ്പർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ഈ സർക്യൂട്ട് ഒരു ചോപ്പറായി മാറുന്നു ഇതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് Vo ഒരു ശുദ്ധമായ DC ആയി ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ ഒരു തരം ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇതൊരു ഫിൽട്ടർ ആകാം ഇത് L C എന്നിവ ചേർന്നതാകാം ഇതിന് ഒരുപക്ഷേ അത്തരത്തിലുള്ള ഒരു ഇൻഡക്ടറും അത്തരത്തിലുള്ള കപ്പാസിറ്റൻസും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ L C എന്നിവ ചേർന്ന് രണ്ടാം ഓർഡർ ഫിൽട്ടർ ഉണ്ടാക്കും ഈ ചോപ്പർ സ്വിച്ചും ഫിൽട്ടറും ചേർന്ന് Vo ൽ ഒരു DC വോൾട്ടേജ് നൽകും അവ ഒരുമിച്ച് ഒരു സ്വിച്ച് മോഡ് DC DC കൺവെർട്ടർ ഉണ്ടാക്കുന്നു ഈ സ്വിച്ചും ഫിൽട്ടറും ഒരുമിച്ച് ചേർക്കാൻ കഴിയുന്ന നിരവധി രൂപരേഖകൾ ഉണ്ട് DC DC കൺവെർട്ടർ ഘടകങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് ഒരു സ്വിച്ച് ഒരു ഇൻഡക്ടൻസ് ഒരു കപ്പാസിറ്റൻസ് എന്നിവ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ടോപ്പോളജി എന്ന് വിളിക്കുന്നു പ്രൈമറി ടോപ്പോളജിയിൽ തന്നെ മൂന്ന് സാധ്യതകളുണ്ട് ഒന്ന് സ്റ്റെപ്പ് ഡൌൺ കൺവെർട്ടർ അല്ലെങ്കിൽ ബക്ക് കൺവെർട്ടർ മറ്റൊന്ന് സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടർ അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവെർട്ടർ മറ്റൊന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് ഡൌൺ step up down അല്ലെങ്കിൽ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ഉണ്ട് അടിസ്ഥാനപരമായി സ്റ്റെപ്പ് ഡൌൺ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇൻപുട്ട് വോൾട്ടേജിനെ താഴ്ന്ന ഔട്ട്പുട്ട് വോൾട്ടേജാക്കി മാറ്റുന്നതാണ് സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് ഡിസി മൂല്യത്തെ ഉയർന്ന ഔട്ട്പുട്ട് ഡിസി മൂല്യമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നു ചില ഡ്യൂട്ടി സൈക്കിളുകളിൽ സ്റ്റെപ്പ് അപ് ഡൌൺ കൺവെർട്ടറിന് രണ്ടും ചെയ്യാൻ കഴിയും അത് സ്റ്റെപ്പ് ഡൌണും മറ്റ് ചില ഡ്യൂട്ടി സൈക്കിളുകൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതുമാണ് ഈ ആഴ്ചയിൽ നമ്മൾ തീർച്ചയായും മൂന്ന് തരം കൺവെർട്ടറുകളും നോക്കും ഈ മൂന്ന് തരം കൺവെർട്ടറുകൾക്കും ഗാൽവാനിക് ഐസൊലേഷൻ ഇല്ല അതായത് അവ ഒരു ട്രാൻസ്ഫോർമറും ഉപയോഗിക്കുന്നില്ല അവ ഒറ്റപ്പെടാത്ത കൺവെർട്ടറാണ് മാത്രമല്ല ഈ കൺവെർട്ടറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉള്ളതിനാൽ അവ പ്രധാനമാണ് നിങ്ങൾ അതിന്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ അത് എങ്ങനെ സിമുലേറ്റ് ചെയ്യാമെന്നും അത് രൂപകൽപ്പന ചെയ്യാമെന്നും നോക്കാം ഇതൊരു ചോപ്പർ സർക്യൂട്ട് ആണ് സ്വിച്ച് ഒരു സിംഗിൾ ത്രോ സ്വിച്ചാണ് സ്വിച്ച് ധ്രുവത്തിലായിരിക്കുമ്പോൾ ത്രോയുമായി ബന്ധിപ്പിച്ചിരിക്കും Vin എന്ന ഇൻപുട്ടിന്റെ പോസിറ്റീവുമായി ത്രോ കണക്ട് ചെയ്യപ്പെടും പോൾ വോൾട്ടേജ് Vin ന് തുല്യമാണ് അത് ഔട്ട്പുട്ട് Vo യിലേക്ക് മാറ്റുന്നു സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ പോൾ ഫ്ലോട്ട് ചെയ്യുകയും പോൾ വോൾട്ടേജ് നിർവചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ Vo യും നിർവചിക്കപ്പെടുന്നില്ല ഇത് സ്വിച്ച് വരയ്ക്കുന്നതിനുള്ള ഒരു ശുപാർശിത മാർഗമല്ല രണ്ട് ത്രോകളുള്ളതും രണ്ട് ത്രോകളും നന്നായി നിർവചിക്കപ്പെട്ട പൊട്ടൻഷ്യലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതുമായ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ സ്വിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ത്രോയിലോ മറ്റൊന്നിലോ കണക്റ്റ് ചെയ്തിരിക്കുന്ന ധ്രുവത്തിന് നിർവചിക്കപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും അതിനാൽ ഔട്ട്പുട്ട് Vo ആണ് സ്വിച്ച് S ഇപ്പോൾ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇതിന് രണ്ട് ത്രോകളുണ്ട് ത്രോ ഒന്ന് T1 എന്നത് ഇൻപുട്ട് വിതരണത്തിന്റെ പോസിറ്റീവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ത്രോ രണ്ട് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു പോൾ T1 ലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ പോൾ വോൾട്ടേജ് Vo യിലേക്ക് മാറ്റുന്ന Vin ന് തുല്യമാണ് P T2 ലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ T2 ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ Vo യുടെ പൊട്ടൻഷ്യൽ 0 ആണ് അതിനാൽ സ്വിച്ച് S ന്റെ രണ്ട് സ്ഥാനങ്ങളിലും Vo ഉം നിർവചിക്കപ്പെട്ട പൊട്ടൻഷ്യലുകൾ ആണ് ഇപ്പോൾ ചോപ്പറിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇൻഡക്ടർ L യുമായി പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഒരു കപ്പാസിറ്റർ ഇതുപോലെ ഉടനീളം ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ LC ഒരു രണ്ടാം ഓർഡർ ഫിൽട്ടറായി ഒരു ഫിൽട്ടർ ഉണ്ടാക്കുന്നു അത് ചോപ്പ് ചെയ്ത വേവ് ഫോമിനെ ഫിൽട്ടർ ചെയ്യുകയും ഔട്ട്പുട്ടിന് സുഗമമായ DC നൽകുകയും ചെയ്യുന്നു ത്രോ T1 മായി പോൾ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് Vin ആയിരിക്കും ഇൻഡക്ടർ കാന്തികമായി ചാർജുചെയ്യാൻ തുടങ്ങുമ്പോൾ കപ്പാസിറ്ററും ചാർജുചെയ്യുന്നു സ്വിച്ച് മറ്റൊരു സ്ഥാനമായ T2 വിലേക്ക് മാറുമ്പോൾ ഈ പോൾ 0 പൊട്ടൻഷ്യലിലാണ് ഇൻഡക്റ്റർ കറന്റ് കപ്പാസിറ്ററിലൂടെയും ഔട്ട്പുട്ട് ലോഡിലൂടെയും വെളിപ്പെടുത്തുകയും കാന്തിക ഊർജ്ജം കപ്പാസിറ്ററിലേക്കും ലോഡിലേക്കും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് വീണ്ടും സൈക്കിൾ ആരംഭിക്കുന്നത് ധ്രുവം V in ലേക്ക് ബന്ധിപ്പിച്ചാണ് ഇത് ബക്ക് കൺവെർട്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു DC DC കൺവെർട്ടറാണ് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo വിന് Vin ന്റെ മൂല്യത്തേക്കാൾ കുറവായിരിക്കും നമുക്ക് ഇവിടെ ചില നാമകരണങ്ങൾ നിർവചിക്കാം P പോൾ T1 ലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ S on എന്ന് വിളിക്കും സ്വിച്ച് ഓണാണ് ത്രോ T2 പോൾ P യുമായി ബന്ധിപ്പിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ ഇപ്പോൾ VL ൽ വോൾട്ടേജ് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ പഠിക്കേണ്ട ഒരു നിർണായക ഘടകമാണ് VL നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു ഘടകം കപ്പാസിറ്റൻസ് C ആണ് ഇൻഡക്ടറിലുടനീളം ഉള്ള VL വോൾട്ടേജ് നമുക്ക് രണ്ട് ആക്സിസുകൾ വരയ്ക്കാം നമുക്ക് സമയമായ x ആക്സിസ് ഉണ്ടായിരിക്കട്ടെ റിയൽ ആക്സിസായ വോൾട്ടേജ് ആക്സിസ് y ആക്സസ് ആക്കാം നമ്മൾ കുറച്ച് ടൈം ലൈനുകൾ ഇടാം ഇത് T1 ലേക്ക് പോൾ കണക്റ്റുചെയ്തിരിക്കുന്ന സ്വിച്ചിന്റെ സമയമാണെന്ന് പറയാം ഇത് സ്വിച്ചിന്റെ ഓഫ് സമയമാണ് വീണ്ടും സ്വിച്ചിന്റെ ഓൺ സമയം വീണ്ടും സ്വിച്ചിന്റെ ഓഫ് സമയം അതിനാൽ നമുക്ക് ഇത് നിർവചിച്ച് ഈ രീതിയിൽ പേര് നൽകാം ഈ കാലയളവിൽ S ഓണാണ് ഈ കാലയളവിൽ S ഓഫാണ് വീണ്ടും S ഓണാണ് തുടർന്ന് S ഓഫാണ് അതിനാൽ VL ൽ ഉടനീളം കാണുന്ന വോൾട്ടേജ് നമുക്ക് പ്ലോട്ട് ചെയ്യാം ഇപ്പോൾ VL ഒരു ബൈഡയറക്ഷണൽ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ സ്ക്രീനിൽ ബൈഡയറക്ഷണൽ വോൾട്ടേജ് കാണുന്നതിന് ഇത് മുകളിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കാം സ്വിച്ച് ധ്രുവത്തിലായിരിക്കുമ്പോൾ T1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ ധ്രുവത്തിലെ വോൾട്ടേജ് Vin ആണ് ഇൻഡക്ടറിന്റെ ഈ വശത്തുള്ള വോൾട്ടേജ് Vo ആണ് അതിനാൽ ആ നിമിഷത്തിൽ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് Vin മൈനസ് Vo ആണ് അത് ഈ ഘട്ടത്തിൽ നിങ്ങൾ കാണുന്ന വോൾട്ടേജ് ആയിരിക്കും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ പോൾ P ത്രോ T2 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു പോൾ വോൾട്ടേജ് 0 ആണ് ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് ഇപ്പോൾ 0 മൈനസ് Vo ആണ് അതായത് വോൾട്ടേജ് നെഗറ്റീവ് ആയി പോകുന്നു എന്നാണ് വീണ്ടും സ്വിച്ച് ഓണാകുമ്പോൾ ഇൻഡക്ടർ വോൾട്ടേജ് ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും ആയി പോകുന്ന രീതിയിൽ സൈക്കിൾ ആവർത്തിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് സ്ഥിരമായ അവസ്ഥയിൽ പോസിറ്റീവ് വശത്തുള്ള ഇൻഡക്റ്റർ വോൾട്ടേജ് കർവിന് കീഴിലുള്ള ഏരിയയും നെഗറ്റീവ് വശത്തുള്ള കർവിന് കീഴിലുള്ള ഏരിയയും കൃത്യമായി പൊരുത്തപ്പെടണം നമുക്ക് കുറച്ച് നിറം നൽകാം അതിനാൽ നീല ഭാഗത്ത് പോസിറ്റീവ് വശത്തുള്ള നീല ഭാഗം നിങ്ങൾ കാണുന്നു നെഗറ്റീവ് വശങ്ങളിൽ ഒന്ന് പൊരുത്തപ്പെടണം അതായത് ഇൻഡക്ടറിലെ ശരാശരി വോൾട്ടേജ് സ്ഥിരമായ അവസ്ഥയിൽ എല്ലായ്പ്പോഴും 0 ആയിരിക്കണം ഇത് ഇൻഡക്ടറിനെ പൂരിതമാക്കുന്നത് തടയും അവിടെ കാന്തിക പ്രവാഹം ഉണ്ടാകില്ല ഒപ്പം ഇൻഡക്ടറിനെ പൂരിതമാക്കുകയും ചെയ്യും അതിനാൽ ഒരു ഇൻഡക്ടറിൽ വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മറ്റൊരു സാഹചര്യത്തിൽ കപ്പാസിറ്റൻസ് ശരാശരി കറന്റ് 0 ആയിരിക്കണം ഒരു ശരാശരി കറന്റ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൽ ചാർജ് ബിൽഡ് അപ്പ് ഉണ്ടാകും കപ്പാസിറ്റൻസിന്റെ കാര്യത്തിൽ Amp സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം ഇൻഡക്റ്റൻസ് കാര്യത്തിൽ വോൾട് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അത് ഞാൻ ഉടൻ വിശദീകരിക്കും മിക്ക DC DC കൺവെർട്ടറുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇൻഡക്റ്ററും കപ്പാസിറ്ററും ആണ് മിക്ക DC DC കൺവെർട്ടറുകളിലെയും ഫിൽട്ടറിന്റെ ഈ ഭാഗം ചലനാത്മക ഘടകങ്ങളിൽ ഒന്നാണ് ഇൻഡക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് നിങ്ങൾ നിരീക്ഷിക്കേണ്ട ഒരു പോയിന്റാണ് അത് ഒരു നിർണായക വോൾട്ടേജാണ് അതുപോലെ DC DC കൺവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചലനാത്മക ഘടകമായ കപ്പാസിറ്ററിന്റെ കാര്യത്തിലും കപ്പാസിറ്റൻസിലൂടെ കറന്റ് നിരീക്ഷിക്കണം ഇനി നമുക്ക് ആദ്യം ഇൻഡക്റ്റർ നോക്കാം ഇൻഡക്ടൻസ് L ഇൻഡക്ടൻസ് VL ൽ ഉടനീളമുള്ള വോൾട്ടേജും ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് I ഉം ഫാരഡെസ് ലോമായി Faraday's law ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഫാരഡെയ്സ് ലോ പ്രകാരം നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ VL എന്നത് L ന് തുല്യമാണെന്ന് നിങ്ങൾ കാണും ഇൻഡക്ടർ സാധാരണയായി ഒരു മാഗ്നെറ്റിക് കോറിൽ ക്ഷതമുണ്ടാക്കുന്നു അതിന് N ടേണുകൾ ഉണ്ട് മാഗ്നെറ്റിക്സിലൂടെയും ഒരു ചെറിയ കോയിലിലൂടെയും ഒഴുകുന്ന ഒരു ഫ്ലക്സുണ്ട് ഇപ്പോൾ സമ്പർക്കങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയാണ് ഇൻഡക്റ്റൻസിലുള്ള വോൾട്ടേജ് VL എന്നത് L N ആണ് N എന്ന സമവാക്യത്തിന്റെ ഈ ഭാഗം നമുക്ക് നോക്കാം കോറിനുള്ളിലെ ഫ്ലക്സ് എന്താണ് ഇപ്പോൾ കോറിനുള്ളിലെ ഫ്ലക്സ് അടിസ്ഥാനപരമായി ഈ സമവാക്യത്തിന്റെ പുനഃക്രമീകരണമാണ് ഇനി നമുക്ക് ഇൻഡക്ടറിൽ ഉടനീളം VL സ്ഥിരമാണെന്ന് പറയാം അപ്പോൾ എന്നത് N φ ആയിരിക്കും കോറിലെ φ ഫ്ലക്സ് ആണ് ഇവിടെ പ്രധാന ഭാഗം VL dt ആണ് VL 0 ആയിരുന്നെങ്കിൽ φ എന്ന് സമവാക്യം ഒരു പരിമിത മൂല്യമായിരിക്കും VL ന് 0 അല്ലെങ്കിലും ഒരു ശരാശരി മൂല്യമുണ്ടെങ്കിൽ അത് ഒരു DC മൂല്യം പോലെയാണ് അത് കാലത്തിനനുസരിച്ച് സമന്വയിപ്പിക്കാൻ തുടങ്ങുകയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഫ്ലക്സും പൂരിതമാകുന്ന മെറ്റീരിയലിനെ ആശ്രയിച്ച് ഒരു പ്രത്യേക ഘട്ടത്തേക്കാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ അത് പൂരിതമായാൽ ഇൻഡക്ടൻസ് ഫലപ്രദമാവുകയും ചെയ്യില്ല ഇത് ഒരു കണ്ടക്ടറിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും അതിനാൽ VL ന് ശരാശരി മൂല്യം ഇല്ല എന്നത് വളരെ പ്രധാനമാണ് അതായത് ഈ വോൾട്ട് സെക്കൻഡ് ഞാൻ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇൻഡക്ടറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സ്ഥിരതയുള്ള അവസ്ഥയിൽ വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ വോൾട്ട് സെക്കൻഡ് ബാലൻസ് സ്ഥിരമായ അവസ്ഥയിൽ മാത്രമാണ് ചലനാത്മകതയിൽ വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടാകില്ല കാരണം ഇൻഡക്ടറിനുള്ളിലെ ഊർജ്ജം മാറേണ്ടതുണ്ട് അത് മാറണമെങ്കിൽ വോൾട്ട് സെക്കൻഡിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം എന്നാൽ സ്ഥിരതയുള്ള അവസ്ഥയിൽ വോൾട്ട് സെക്കന്റ് ബാലൻസ് ഉണ്ടാകാത്തതിനാൽ ഫ്ലക്സും സാച്ചുറേഷനും ഉണ്ടാകില്ല അതുപോലെ സമവാക്യം നിയന്ത്രിക്കുന്നതിലൂടെ കപ്പാസിറ്റൻസിൽ ഈ Ic അത് Cക്ക് തുല്യമാണ് dv എന്നത് ഒരു കപ്പാസിറ്റൻസിൽ ഉടനീളമുള്ള വോൾട്ടേജാണ് Ic എന്നത് കപ്പാസിറ്റൻസിലെ വൈദ്യുതധാരയാണ് ഇത് പുനഃക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കപ്പാസിറ്റൻസിൽ ഉടനീളമുള്ള വോൾട്ടേജ് ലഭിക്കും അത് 1C ∫ Ic dt ആണ് ഒരു ശരാശരി കറന്റ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിനർത്ഥം തത്തുല്യമായ dC മൂല്യം ഉണ്ടായിരിക്കും എന്നാണ് അതായത് dC വാല്യൂ dt യുടെ ഇന്റഗ്രൽ അർത്ഥമാക്കുന്നത് ഈ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അതായത് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് അനന്തതയിലേക്ക് പോകും ഒടുവിൽ പൂരിതമാകുന്നു ഇപ്പോൾ കപ്പാസിറ്റൻസ് ഉയരുന്നു അതിനാൽ Ic ക്ക് ശരാശരി മൂല്യം ഉണ്ടാകരുത് എന്നത് പ്രധാനമാണ് Ic dt amp സെക്കൻഡ് ബാലൻസ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യണം അതിനാൽ കപ്പാസിറ്ററിൽ ഇൻഡക്ടറിന്റെ ഇരട്ടയായ കപ്പാസിറ്റൻസിന്റെ കാര്യത്തിൽ സ്ഥിരമായ അവസ്ഥയിൽ amp സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം സ്ഥിരമായ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ചലനാത്മകത സമയത്ത് ചില അസന്തുലിതാവസ്ഥ ഉണ്ടാകും അതിലൂടെ വോൾട്ടേജ് നിർമ്മിക്കുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യും സ്ഥിരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സൈക്കിൾ പ്രകാരം ഒരു amp second ബാലൻസ് സൈക്കിൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വാസ്തവത്തിൽ എല്ലാ DC DC കൺവെർട്ടറുകളുടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം സ്വിച്ചഡ് മോഡ് DC DC കൺവെർട്ടർ എന്നിവ ഈ രണ്ട് പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൺവെർട്ടറുകളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ബന്ധം നിർണ്ണയിക്കാൻ സ്ഥിരമായ അവസ്ഥയിലുള്ള വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉപയോഗിക്കുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് കറൻറ് ബന്ധം നിർണ്ണയിക്കാൻ ആംപ് സെക്കൻഡ് ബാലൻസ് ഉപയോഗിക്കുന്നു തീർച്ചയായും ഒരാൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം നിർണ്ണയിക്കാനും ഇൻപുട്ട് ഔട്ട്പുട്ട് കറന്റ് റിലേഷൻഷിപ്പ് ടൂൾ നിർണ്ണയിക്കാൻ അനുയോജ്യമായ ഒരു കൺവെർട്ടർ അനുമാനിക്കാനും വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉപയോഗിക്കാം അതിനാൽ ഇവ രണ്ടും ഓർക്കുക വാസ്തവത്തിൽ അവ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം കണ്ടെത്താൻ മിക്കവാറും എല്ലാ കൺവെർട്ടറുകളിലും വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉപയോഗിക്കും എല്ലാ ഫലങ്ങളും നമ്മൾ നിങ്ങൾക്ക് നേരത്തെ നൽകുന്ന ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ചില പൊതു മൂല്യങ്ങൾ നൽകാം ഇപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് Vin മൈനസ് Vin Vo ആണ് ഓൺ സമയത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ പോൾ T1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇൻഡക്റ്റൻസിലുള്ള വോൾട്ടേജ് Vin Vo ആണ് ഓഫ് സമയത്തും പോൾ T2 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന സമയത്തും അത് 0 മൈനസ് Vo ആയിരിക്കും അതിനാൽ Vo ആയിരിക്കും ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഇതാണ് നമ്മൾ Ton എന്ന് വിളിക്കുന്ന സമയ കാലയളവ് ഇതാണ് നമ്മൾ Toff എന്ന് വിളിക്കുന്ന സമയ കാലയളവ് അതായത് T1 ന്റെ ദൈർഘ്യം നിങ്ങൾക്ക് കാണാം ഇൻഡക്ടർ വോൾട്ടേജ് Vin Vo Toff കാലയളവിൽ ഇൻഡക്ടറിലുടനീളം ഉള്ള വോൾട്ടേജ് Vo ആണ് ഇനി നമുക്ക് ഈ പരാമീറ്ററുകളിൽ വോൾട്ട് സെക്കൻഡ് ബാലൻസ് പ്രയോഗിക്കാം ഇപ്പോൾ സമവാക്യത്തിന്റെ ഈ ഭാഗം പരിഗണിക്കുക Ton ഇത് അടിസ്ഥാനപരമായി ഈ ദീർഘചതുരത്തിന്റെ Ton ആണ് അതിനാൽ ഈ വീതിയിലേക്കുള്ള ഈ ഉയരം ഈ ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണമാണ് അല്ലെങ്കിൽ ഇത് ഇൻഡക്ടൻസ് തരംഗരൂപത്തിന്റെ ഈ പോസിറ്റീവ് ഭാഗത്തിന്റെ വോൾട്ട് സെക്കന്റാണ് ഇപ്പോൾ ഇത് മൈനസ് Vo Toff ആണ് അത് വീതിയാണ് അതിനാൽ നമുക്ക് ഈ ഏരിയയിലെ Toffലേക്ക് ആ പ്ലസ് മൈനസ് Vo ചേർക്കാം അതിനാൽ ഈ വോൾട്ട് സെക്കൻഡും ഈ വോൾട്ട് സെക്കൻഡും 0 ന് തുല്യമായിരിക്കണം അപ്പോൾ നമ്മൾ വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉണ്ടെന്ന് പറയുന്നു അതിനാൽ ഈ സമവാക്യം നിങ്ങൾ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഇത് Vin Ton മൈനസ് Vo എന്ന രൂപത്തിലാണെന്ന് നിങ്ങൾ കാണും നമുക്ക് അതിനെ മറുവശത്തേക്ക് മൈനസ് Vo Toff ൽ നിന്ന് മറ്റേ വശത്തേക്ക് VoTon Toff എടുക്കാം Ton Toff എന്നത് ആകെയുള്ള സ്വിച്ച് കാലയളവാണ് അതിനാൽ ആകെ സ്വിച്ച് കാലയളവ് Ton Toff ആണ് ഇതാണ് Ts അതിനാൽ ഇനിയും പുനഃക്രമീകരിക്കുമ്പോൾ Vo Vin Ton Ts ഇത് Ts ആണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഇത് ഈ ബക്ക് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധമായിരിക്കും ഇൻഡക്ടറിന്റെ വോൾട്ട് സെക്കൻഡ് ബാലൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുമെന്ന് ഞാൻ കരുതിയ ഒരു ഉദാഹരണമാണിത് കൺവെർട്ടർ എന്തുമാകട്ടെ നിങ്ങൾ ഇൻഡക്ടറിന്റെ വോൾട്ട് സെക്കൻഡ് ബാലൻസ് ബന്ധം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം ലഭിക്കും പ്രഭാഷണത്തിന്റെ ഈ പ്രത്യേക വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ആശയം ഇതാണ്